കൃത്യമായി നമ്മൾ അതിലേക്ക് തന്നെ വരുന്നു അതിനാൽ ബെസ്സൽ ഫംഗ്ഷൻ 0 പോകുന്ന ഒരു പൾസിൽ നിങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് ചോദ്യം അതിനാൽ ഇത് എന്റെ rm ആണ് പൊതുവെ ഇത് ഇവിടെ ചില പോയിന്റുകളായിരിക്കാം r′ അതിനാൽ സാധ്യമായ 2 കേസുകൾ നിങ്ങൾക്കറിയാം അതിനാൽ rm nth പൾസിന്റേതല്ലെന്നും rm nth പൾസിന്റേതാണെന്നും എനിക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് വളരെ ലളിതമായി വേണമെങ്കിൽ m n എന്നും mn എന്നും പറയാം നമ്മൾ വിഷമിക്കേണ്ട 2 കേസുകൾ ഇവയാണ് അതിനാൽ ഒരു പരിമിതമായ സംയോജനമാണെന്ന് നിങ്ങൾ കരുതുന്ന ആദ്യത്തെ കേസ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ശരിയല്ല അതിനാൽ നമുക്ക് ക്വാഡ്രേച്ചർ നിയമങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയും രണ്ടാമത്തെ ടേം എന്നത് ഒരു പോട്ടൻഷ്യൽ സിംഗുലാരിറ്റി പൊട്ടൻഷ്യൽ ഉള്ളിടത്താണ് അതാണ് ഇവിടെ കീവേഡ് ഇത് ഒരു പ്രശ്നമാകുമെന്ന് നിങ്ങൾ അവബോധപൂർവ്വം കരുതുന്നുണ്ടോ ഞാൻ g അല്ലെങ്കിൽ ∇g സമന്വയിപ്പിക്കുകയാണോ വിദ്യാർത്ഥി ജി ഈ സംയോജനം ഇവിടെ ഞാൻ g അല്ലെങ്കിൽ ∇g സമന്വയിപ്പിക്കുകയാണോ വിദ്യാർത്ഥി ജി g എന്നത് വളരെ ചെറുതാണ് x ഇത് ഏത് രൂപത്തിലാണ് വിദ്യാർത്ഥി ലോഗ് 1x അല്ലെങ്കിൽ log വിദ്യാർത്ഥി ലോഗ് അതിനാൽ ഇത് x നുള്ള log വളരെ ചെറുതാണ് വിദ്യാർത്ഥി ഇത് അവിഭാജ്യമാണ് അതിനാൽ ഇത് ഒരു സമഗ്രമായ ഏകത്വ അവകാശമാണ് ഈ സാഹചര്യത്തിൽ ഞാൻ വിഷമിക്കേണ്ടതില്ല വിദ്യാർത്ഥി ഏകത്വം ചില തരത്തിലുള്ള ഒരു പ്രധാന മൂല്യം ഇന്റഗ്രൽ കൂടാതെ ഉപരിതല ഇന്റഗ്രൽ കേസിൽ എനിക്ക് ഉണ്ടായിരുന്ന സങ്കീർണ്ണമായ എല്ലാ കാര്യങ്ങളും പ്രശ്നമുണ്ടായത് ∇g ശരിയല്ല എന്നതിൽ നിന്നാണ് ഉപരിതല അവിഭാജ്യ കേസ് ഓർക്കുക അതിനാൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് അവബോധപൂർവ്വം നമുക്കറിയാം അതിനാൽ വോളിയം ഇന്റഗ്രൽ സമവാക്യങ്ങളുടെ മറ്റൊരു നേട്ടമാണിത് യഥാർത്ഥ ഏകത്വം ഒഴിവാക്കപ്പെടുന്നു എന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സമഗ്രമായ ഏകത്വമുണ്ട് ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ഈ സംയോജനം നടത്താം നിങ്ങൾക്ക് ഒന്നുകിൽ ക്വാഡ്രേച്ചർ നിയമങ്ങൾ ഉപയോഗിക്കാം എന്നാൽ ഈ സാഹചര്യത്തിൽ ഒരുതരം പ്രകൃതി നമ്മോട് അവിഭാജ്യമായി കൂടുതൽ ദയ കാണിക്കുന്നു അതിനാൽ ഞാൻ എന്താണ്യോജിപ്പിക്കുന്നത് ഞാൻ ഈ ഗ്രീനിന്റെ ഫംഗ്ഷൻ ∫grmr′dr′ സംയോജിപ്പിക്കുകയാണ് അടിസ്ഥാനപരമായി ഇത് ഇന്റഗ്രൽ ആണ് nth പൾസ്ന് മുകളിൽ ഇത് ഞാൻ വിഷമിക്കേണ്ട സംയോജനമാണ് ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന രീതിയിൽ ഇവ സൈസ് ബി എന്ന് പറയാം ഒരു ചതുര ബോക്സിന് മുകളിലുള്ള ഈ ഹാങ്കെൽ ഫംഗ്ഷന്റെ അവിഭാജ്യഘടകത്തിന് അടച്ച വിശകലന രൂപമില്ലെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിവരം നൽകുന്നു അതിശയിക്കാനില്ല കാരണം ഇത് ബെസ്സൽ ഫംഗ്ഷൻ ആണ് എന്നിരുന്നാലും ഞാൻ ഒരു സർക്കിളിൽ ഇതേ ഇന്റഗ്രൽ ചെയ്താൽ ഇന്റഗ്രൽ ഒരു ക്ലോസ്ഡ് അനലിറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടെന്ന് മാറുന്നു പക്ഷേ നമ്മൾ അതിനെ ചതുരങ്ങളാക്കി മാറ്റി ഒരു സർക്കിളിനുള്ള ഉത്തരം നമുക്കറിയാം അതിനാൽ നടത്തിയ ഏകദേശ കണക്ക് നിങ്ങളുടെ സർക്കിളിന്റെ ഏകദേശമാണ് അതിനാൽ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്ലോസ് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ക്വാഡ്രേച്ചറിന്റെ പിശക് ഇല്ല ഞാൻ ക്വാഡ്രേച്ചർ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ചില പിശകുകൾ ഉണ്ടാകും ഞാൻ ആ പിശക് ഒഴിവാക്കുകയും ഒരു പുതിയ പിശക് ഉപയോഗിച്ച് ഞാൻ അതിനെ മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുന്നു അത് ഒരു ചതുരത്തെ ഒരു സർക്കിളിൽ കണക്കാക്കുന്നു എന്റെ വിവേചനാധികാരം വളരെ മികച്ചതാക്കുന്നതിനാൽ ആ പിശക് ഇല്ലാതാകും അതിനാൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടതില്ലാത്ത തന്ത്രം അതാണ് പക്ഷേ നമുക്ക് അടച്ച രൂപ പദപ്രയോഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അതിനാൽ പ്രദേശം സമാനമായിരിക്കണം അതിനാൽ ബി സ്ക്വയർ പൈ എ സ്ക്വയർ ആയിരിക്കണം അതിനാൽ അതാണ് ഞാൻ ചെയ്യുന്നത് ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ ഹാൻഡ്ബുക്കുകൾ നോക്കി നിങ്ങൾക്ക് ഈ സംയോജനം ചെയ്യാൻ കഴിയുന്ന അവസാന പദപ്രയോഗം ഞാൻ എഴുതും അതിനാൽ അതിനാൽ ഞാൻ 2 എക്സ്പ്രഷനുകൾ എഴുതാം അതിനാൽ ആദ്യ പദപ്രയോഗം m n എന്നതിനുള്ളതാണ്

അതിനാൽ സിലിണ്ടറിന്റെ ആരം ശരിയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഇത് ഒരു പദപ്രയോഗമാണ് രണ്ടാമത്തെ പദപ്രയോഗം ആരോപിക്കപ്പെടുന്ന ഏകത്വത്തിലെ ഏകത്വം പ്രത്യക്ഷപ്പെടുകയും പദപ്രയോഗം വീണ്ടും അടഞ്ഞ രൂപ പദപ്രയോഗം ഉണ്ടാവുകയും ചെയ്യുന്നിടത്താണ് k22πkaH1 − 2j ഇത് നമുക്ക് യഥാർത്ഥത്തിൽ പോയി ഈ സംയോജനം കാണിക്കാൻ കഴിയുന്ന വിവരങ്ങൾ മാത്രമാണ് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ ഇത് ഉപരിതല അവിഭാജ്യ സമവാക്യങ്ങളേക്കാൾ വളരെ ലളിതമാണ് കാരണം യഥാർത്ഥത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല ρmn |rm − r| Rho m n ആണ് ദൂരം സ്ക്വയറുകളുടെയോ സർക്കിളുകളുടെയോ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം ρmn അതിനാൽ എല്ലാ 9 ടെസ്റ്റിംഗ് പോയിന്റുകൾക്കും 1 സമവാക്യം ആവർത്തിക്കുന്നു എനിക്ക് 9 സമവാക്യങ്ങൾ 9 വേരിയബിളുകൾ